'ഇൻട്രൊഡക്ഷൻ ടു മെക്കാനോബയോളജി എന്ന NPTEL കോഴ്സിലെ മൂന്നാമത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ലെക്ച്ചറുകളിൽ മെക്കാനോബയോളജി എന്ന വിഷയത്തെ ആധാരമാക്കിയുള്ള ഒരു വിവരണമാണ് ഞാൻ നൽകിയത് മേല്പറഞ്ഞ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ അതിന്റെ പ്രസക്തി മറ്റ് ശാസ്ത്രശാഖകളിൽ നിന്നും ഇവ ഉൾകൊള്ളുന്ന അംശങ്ങൾ ജൈവപ്രക്രിയകൾ നിർണ്ണയിക്കുന്നതിൽ ഫിസിക്സ് പോലെയുള്ള പഠനമേഖലകൾക്കുള്ള സാധ്യതകൾ എന്നിവ നമ്മൾ വിശദമായി കണ്ടതാണ് അതുപോലെ തന്നെ എങ്ങനെ ഒരു ടെന്റിനെ മനുഷ്യശരീരത്തിലെ കോശവുമായി താദാത്മ്യം ചെയ്യാമെന്നും ഞാൻ വളരെ സംക്ഷിപ്തമായി സൂചിപ്പിച്ചിരുന്നു മേല്പറഞ്ഞ ടെന്റിന്റെ കാര്യം തന്നെ എടുക്കാം ഇവയ്ക്ക് സ്ഥിരതയുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഏറ്റവും ലളിതമായ നിബന്ധനകൾ എന്തൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ലെക്ച്ചറുകളിൽ സൂചിപ്പിച്ചത് പോലെ അനുബന്ധ കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചില ഘടകങ്ങളുടെ സാന്നിധ്യമാണ് കോശങ്ങൾക്ക് സ്ഥിരത കൈവരിക്കാൻ സഹായകമാകുന്നത് അതിനാൽ ഇവയെ ടെന്റിന് സ്ഥിരത നൽകുന്ന വസ്തുക്കളോട് ഉപമിക്കാവുന്നതാണ് മേല്പറഞ്ഞ ഉപമ തുടർച്ചയായി രക്തപ്രവാഹത്തിലൂടെ ഉയർന്ന സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ചംക്രമണം ചെയ്യുന്ന ചുവന്ന രക്താണുക്കൾക്ക് ബാധകമല്ല എന്നത് കൌതുകകരമായ ഒരു വസ്തുതയാണ് കോശത്തിന്റെ ഘടന നിലനിർത്തുന്നതിനായി നാല് പ്രധാന കാര്യങ്ങൾ അനിവാര്യമാണ് ഒന്ന് കോശത്തിനെ അകവും പുറവും വേർതിരിക്കാനുള്ള കനോപ്പിയാണ് ഇതിനെ നമുക്ക് കോശത്തിന്റെ പ്ലാസ്മ മെംബ്രേയ്നുമായി താരതമ്യം ചെയ്യാവുന്നതാണ് ഇതൊരു സെലക്ടീവ്ലി പെർമിയബിൾ ബാരിയറാണ് കോശങ്ങൾക്കകത്ത് നിന്ന് പുറത്തേക്കും നേരെ തിരിച്ചും തെരഞ്ഞെടുക്കപ്പെട്ട അവശ്യപോഷകങ്ങൾ പുറന്തള്ളപെടേണ്ട അനാവശ്യ വസ്തുക്കൾ എന്നിവയെ കടത്തിവിടാൻ കെല്പുള്ള പാളിയാണിത് മേല്പറഞ്ഞ പാളിയിലൂടെ സിഗ്നലുകളും സംപ്രേക്ഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് വസ്തുത പ്ലാസ്മ മെംബ്രേയ്നിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകളാണ് മേല്പറഞ്ഞ സിഗ്നലുകൾ സംപ്രേക്ഷണം ചെയ്യാൻ സഹായിക്കുന്നത് അവയിൽ ചിലത് ട്രാൻസ് മെംബ്രേയ്ൻ പ്രോട്ടീനുകളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഇന്റെഗ്രിനുകളെ പറ്റി നമ്മൾ കഴിഞ്ഞ ലെക്ച്ചറിൽ ചർച്ച ചെയ്തിരുന്നു ഇവ കോശങ്ങളുടെ അകവും പുറവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട് കോശങ്ങളുടെ ആന്തരികപാളിയിലോ അല്ലെങ്കിൽ പുറം പാളിയിലോ നമുക്ക് പ്രോട്ടീനുകളെ കാണാവുന്നതാണ് പുറമെ കാണുന്ന പ്രോട്ടീനുകൾക്ക് എക്സ്ട്രാ സെല്ലുലറായ തന്മാത്രകളുമായി സംവദിക്കാനുള്ള ശേഷിയുണ്ട് എന്നാൽ കോശങ്ങൾക്കകത്ത് സ്ഥിതി ചെയ്യുന്നവയാകട്ടെ ഉള്ളിൽ കാണുന്ന പ്രോട്ടീനുകളുമായി സമ്പർക്കം പുലർത്തുന്നവയാണ് ഒരു കോശത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ പ്രധാന ആവശ്യകത എന്നത് തീർച്ചയായും അതിന്റെ സൈറ്റോസ്കെലിറ്റനാണ് മേല്പറഞ്ഞ ചട്ടക്കൂടാണ് കോശങ്ങൾക്ക് നിയതമായ രൂപഘടന പ്രതിനിധാനം ചെയ്യുന്നത് ഈ കാണുന്നത് ഭ്രൂണാവസ്ഥയിലുള്ള ഒരു എലിയുടെ എംബ്രിയോണിക് ഫൈബ്രോബ്ലാസ്റ് കോശങ്ങളാണ് ഇവയ്ക്കുള്ളിലെ ഫിലമെന്റസ് അഥവാ F ആക്റ്റിനെ നമ്മൾ കൃത്യമായി പ്രോബ് ചെയ്തിട്ടുണ്ട് മേല്പറഞ്ഞ ഫിലമെൻറ്സിനെ നമുക്ക് സ്ട്രെസ് ഫൈബറുകൾ എന്ന് അഭിസംബോധന ചെയ്യാവുന്നതാണ് ഇവ കോശത്തിനുള്ളിൽ ഉടനീളം വ്യാപിച്ച് അവയ്ക്ക് നിശ്ചിത ഘടന പ്രധാനം ചെയ്യുന്നുണ്ട് ഇതൊരു നിശ്ചലചിത്രമാണ് എന്നാൽ Lifeact ഉപയോഗിച്ച് ട്രാൻസ്ഫെക്ട് ചെയ്ത കോശങ്ങളുടെ വീഡിയോയിൽ കണ്ടതിൽ നിന്നും വിഭിന്നമായി യഥാർത്ഥ കോശത്തിൽ അനുഭവപെടുന ചലനാത്മകത നമുക്കിവിടെ വിവരിക്കുവാൻ സാധിക്കുകയില്ല ഇവിടെ സൈറ്റോസ്കെലിറ്റനെന്നത് കോശങ്ങളിൽ നിയതമായ ആകൃതി മാത്രമല്ല മറിച്ച് മോട്ടിലിറ്റി കൂടി പ്രധാനം ചെയ്യുന്നുണ്ട് എന്നതാണ് വസ്തുത ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഫിലമെന്റുകൾ തുടർച്ചയായി ഒത്തുചേരുകയും വേർപെടുകയും ചെയ്യുമ്പോൾ ഉടലെടുക്കുന്ന ചലനാത്മകമായ പ്രവർത്തനത്തിന്റെ പ്രഭാവത്തിലാണ് മേല്പറഞ്ഞ മോട്ടിലിറ്റി സംഭവിക്കുന്നത് ആയതിനാൽ ഇവിടെ നമുക്ക് മുൻപിൽ സൈറ്റോസ്കെലിറ്റനിൽ അടങ്ങിയിരിക്കുന്ന ആക്റ്റിൻ മൈക്രോ ട്യൂബ്യുൾസ് ഇന്റർ മീഡിയേറ്റ് ഫിലമെൻറ്സ് എന്നിങ്ങനെ മൂന്ന് പ്രോട്ടീൻ നെറ്റ് വർക്കുകൾ കാണാൻ സാധിക്കും സൈറ്റോസ്കെലിറ്റൽ ഫിലമെന്റുകളെ കുറിച്ചും അവയുടെ പ്രവർത്തന രീതിയെപറ്റിയും നമ്മൾ പിന്നീട് വിശദമായി ചർച്ചചെയ്യുന്നതായിരിക്കും ഇനി ഇവയ്ക്ക് ആവശ്യം സുദൃഢമായ ഒരു എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സാണ് കോശങ്ങൾക്ക് ഘടനാപരമായ പിന്തുണയേകുന്ന ഒരുതരം തട്ടാണിത് ഇതിൽ പറ്റി നിന്നാണ് അവ വളരുന്നതും പിന്നീട് സംയോജിതമായ അവയവങ്ങളായി മാറുന്നതും കോശങ്ങളുടെ ജലാംശം നഷ്ടപ്പെടാതെ സംഭരിക്കാനും അവയുടെ എഡ്ഹെഷനെ ഗണ്യമായി സ്വാധീനിക്കുവാനും മേല്പറഞ്ഞ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിന് സാധ്യമാകുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചത് പോലെ പ്രോട്ടീൻ ശൃംഖലയിൽ ക്രോസ്സ് ലിങ്ക് ചെയ്യപ്പെടുന്ന രാസതന്മാത്രകളെയും കോശങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഘടകങ്ങളെയും മെട്രിക്സിനുള്ളിലേക്ക് ആഗിരണം ചെയ്യുന്നതിൽ ECM ന് ഗണ്യമായ പങ്കുവഹിക്കാനുണ്ട് അവസാനമായി നമ്മൾ ഫോക്കൽ എഡ്ഹെഷനുകളെ കുറിച്ചാണ് സംസാരിച്ചത് കഴിഞ്ഞ ലെക്ച്ചറിൽ ഞാൻ അവയെ ഡൈനാമിക് വെൽഡുകൾ എന്നാണ് വിശേഷിപ്പിച്ചത് കാരണം അവ സ്റ്റാറ്റിക് അല്ലാത്തതിനാൽ അവയിൽ ഏതാനും ചില നിമിഷങ്ങളുടെ സമയക്രമത്തിലാണ് എഡ്ഹെഷൻ സംഭവ്യമാകുന്നത് മേല്പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഏതു തരം കോശത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിൽ അധിഷ്ഠിതമായിരിക്കും ഫോക്കൽ എഡ്ഹെഷനിൽ ലോക്കലൈസ് ചെയ്യുന്ന പ്രോട്ടീനുകളുടെ നൂറ് ശതമാനം കണ്ടെന്റും ഒരു പ്രത്യേക പരിധിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവയല്ല എന്നാൽ സ്റ്റെയിനിങ്ങിലൂടെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഈ രേഖകൾ യഥാർത്ഥത്തിൽ കോശങ്ങളെ നേരിയ വെളിച്ചത്തിൽ പെർമിയബിലൈസ് ചെയ്ത് അതിന്റെ ഫോക്കൽ എഡ്ഹെഷനുമായി ബന്ധപ്പെട്ട പ്രോട്ടീനുകളുടെ സൈറ്റോപ്ലാസ്മിക് പൂൾ സസൂക്ഷ്മം നീക്കം ചെയ്തവയാണ് എന്നിട്ടും ലയിക്കാൻ വിട്ടുപോയവയാണ് ഈ കാണുന്ന ഫോക്കൽ എഡ്ഹെഷനുകളിൽ സജീവമായി കാണുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ കൈവശം ഒരു സൈറ്റോപ്ലാസ്മിക് പൂളും ഒരു ഫോക്കൽ എഡ്ഹെഷൻ പൂളുമുണ്ടെന്ന് വിചാരിക്കുക ഫോക്കൽ എഡ്ഹെഷൻ പൂളിൽ ലോക്കലൈസ് ചെയ്യുന്ന പ്രോട്ടീനുകൾക്ക് ആനുപാതികമായി സൈറ്റോപ്ലാസത്തിൽ ലോക്കലൈസ് ചെയ്യുന്നവയുടെ കണക്ക് ലഭിക്കുന്നതിനായി നമുക്കൊരു ചെറിയ പരീക്ഷണം നടത്താം മേല്പറഞ്ഞ പരീക്ഷണത്തിൽ കോശങ്ങളെ ആദ്യം പെർമിയബിലൈസിങ് ഏജൻറ് ഉപയോഗിച്ച് കൈകാര്യം ചെയ്ത് സൈറ്റോപ്ലാസ്മിക് പൂൾ നീക്കം ചെയ്യുന്നു തുടർന്ന് നമ്മൾ ശേഷിക്കുന്ന ഭാഗങ്ങൾ ശേഖരിച്ച് കണക്കെടുത്താൽ ഫോക്കൽ എഡ്ഹെഷൻ പൂളിനെ പറ്റി ധാരണ ലഭ്യമാകുന്നു എഡ്ഹെഷനുകളുടെ വലുപ്പവും കോശങ്ങൾക്ക് ആധാരമായ ശരാശരി നിരക്കും രണ്ട് സുപ്രധാന വേരിയബിളുകളായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു അവ കോശങ്ങളുടെ സ്ഥിരതയും ദൃഢതയും നിർണ്ണയിക്കുന്നത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കോശങ്ങൾ സുദൃഢമായി ബന്ധിച്ചിരിക്കുന്ന ഇടങ്ങളിൽ സ്പഷ്ടമായ ഫോക്കൽ എഡ്ഹെഷനുകൾ മാത്രമല്ല മറിച്ച് ഈ കാണുന്ന തരത്തിലുള്ള എഡ്ഹെഷനുകളും കാണാൻ സാധിക്കും എന്നാൽ ഇമ്മ്യൂൺ കോശങ്ങളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ അവയ്ക്ക് തുടർച്ചായി സ്ഥാനചലനം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അവയിൽ കാണുന്ന എഡ്ഹെഷനുകൾ തീർത്തും ചെറുതും അധികം വികാസം പ്രാപിക്കാത്തവയുമായിരിക്കും ഈ കോഴ്സിന്റെ ഭാഗമായി ഫോക്കൽ എഡ്ഹെഷന്റെ ചലനാത്മകതയെ കുറിച്ചും അവയിൽ പങ്കെടുക്കുന്ന മറ്റ് ഘടകങ്ങളെ കുറിച്ചും നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നതായിരിക്കും നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ളത് എഡ്ഹെഷൻ ടേൺ ഓവറിനെ കുറിച്ചാണ് അതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഡൈനാമിക് വെൽഡുകളുടെ കാര്യം സൂചിപ്പിച്ചത് കോശങ്ങൾക്ക് ചലനാത്മകത കൈവരിക്കണമെങ്കിൽ അവയിൽ മേല്പറഞ്ഞ എഡ്ഹെഷനുകൾ രൂപപ്പെടുകയും പിന്നീട് ഭേദിക്കപെടുകയും ചെയ്യണ്ടതായിട്ടുണ്ട് ഉദാഹരണത്തിന് മേല്പറഞ്ഞ പ്രക്രിയ ഒരു വ്യക്തി നടക്കുന്നതിന് സമാനമാണ് നടത്തത്തിന്റെ ഭാഗമായി ആദ്യം അദ്ദേഹം ഒരു കാൽ മുന്നോട്ട് വെക്കുന്നു പാദങ്ങൾ നിലത്ത് സുദൃഢമായി ഉറപ്പിക്കുന്നതിലൂടെ ഒരു തരത്തിലുള്ള ഫോക്കൽ എഡ്ഹെഷനാണ് രൂപപ്പെടുന്നത് ശേഷം പതിയെ അടുത്ത കാൽ മുന്നോട്ട് വെക്കുന്നു ആയതിനാൽ ഒരു കോശത്തിന്റെ ചലനത്തിനെ നമുക്ക് മേല്പറഞ്ഞ പ്രക്രിയയുമായി താദാത്മ്യം ചെയ്യാവുന്നതാണ് ഇതിനെയാണ് നമ്മൾ എഡ്ഹെഷൻ ടേൺ ഓവറെന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു കോശത്തിന്റെ ചലനത്തിന് സഹായകമാകുന്ന ഫോക്കൽ എഡ്ഹെഷനുകളെ കുറിച്ച് അല്പം കൂടി വിശദമായി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ഏതാനും ചില ലളിത പരീക്ഷണങ്ങൾ നടത്താവുന്നതാണ് ഫ്ളൂറസെന്റ് ഫോക്കൽ എഡ്ഹെഷൻ പ്രോട്ടീനുകളെ കോശങ്ങൾക്കകത്ത് തിരഞ്ഞുപിടിച്ച് അവയുടെ ഫോക്കൽ എഡ്ഹെഷൻ ലോക്കലൈസേഷൻ രീതികൾ കണ്ടെത്താവുന്നതാണ് ഇതിലൂടെ എഡ്ഹെഷന്റെ വലുപ്പം എപ്രകാരമാണ് വർദ്ധിക്കുന്നതെന്നും അവ എങ്ങനെ ചുരുങ്ങുന്നു എന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും ടേൺ ഓവറിന്റെ നിരക്കിനെ പറ്റിയും നമുക്ക് ഇതിൽ നിന്നും ഉത്തരം കണ്ടെത്താവുന്നതാണ് കോശങ്ങൾക്ക് സ്ഥിരതയും ദൃഢതയും നിയതമായ ആകൃതിയും പ്രധാനം ചെയുന്ന നാല് സുപ്രധാന ഘടകങ്ങൾ മേല്പറഞ്ഞവയാണ് ഒരു കെമിക്കൽ സിഗ്നലിൽ നിന്നും വിഭിന്നമായി മെക്കാനിക്കൽ സിഗ്നലുകൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സമയക്രമത്തിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ സിഗ്നൽ പ്രൊപഗേഷന്റെ മാഗ്നിട്യൂഡ് എന്നത് കെമിക്കൽ സിഗ്നൽ പ്രൊപഗേഷനേക്കാളും മൂന്നിരട്ടി മുന്തിയതാണ് എന്നതാണ് വസ്തുത അതായത് കെമിക്കൽ സിഗ്നലുകൾ സൈറ്റോപ്ലാസത്തിൽ വ്യാപിച്ച് ന്യൂക്ലിയസിലേക്ക് സന്ദേശങ്ങൾ സംവേദനം ചെയ്യുന്നതിനേക്കാൾ ദ്രുതഗതിയിലാണ് മെക്കാനിക്കൽ സിഗ്നലുകൾ സൈറ്റോസ്കെലിറ്റൻ മുഖേന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മെക്കാനിക്കൽ സിഗ്നൽ പ്രൊപഗേഷനിലൂടെ ദ്രുതഗതിയിൽ സിഗ്നലുകൾ സംവേദനം ചെയ്യപ്പെടുന്നത് മേല്പറഞ്ഞ സൈറ്റോസ്കെലിറ്റൻ എന്ന ശൃംഖലയുടെ സാന്നിധ്യം മൂലമാണ് ഇവിടെ ഇന്റെഗ്രിൻ പോലുള്ള തന്മാത്രകൾ സൈറ്റോസ്കെലിറ്റനെയും കോശങ്ങളുടെ പുറംഭാഗവും തമ്മിൽ ബന്ധിക്കുന്നതിൽ മധ്യസ്ഥം നിൽക്കുന്നവയാണ് മേല്പറഞ്ഞ ഇന്റെഗ്രിനുകൾ ഫോക്കൽ എഡ്ഹെഷൻസ് മുഖേന കോശങ്ങളുടെ പുറമെയുള്ള എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായി നമുക്ക് ഈ കാണുന്ന ചിത്രത്തിൽ നിന്നും വ്യക്തമായി കാണാവുന്നതാണ് ഇന്റെഗ്രിനിന്റെയും ഫോക്കൽ എഡ്ഹെഷൻസിന്റെയും ഈ കാണുന്ന ഭാഗങ്ങൾ വളരെ സജീവമായ സൈറ്റോസ്കെലിറ്റൽ ശൃംഖലയുമായി ബന്ധിക്കുകയും അതിൽ നിന്നും ഉടലെടുക്കുന്ന സൈറ്റോസ്കെലിറ്റൽ ഇന്റർമീഡിയറ്റ് ഫിലമെന്റുകൾ മുഖാന്തരം കോശങ്ങളുടെ ന്യൂക്ലിയസ് ന്യൂക്ലിയർ മെംബ്രേയ്ൻ എന്നിവയിലൂടെ ഒടുവിൽ DNA യുമായി ബന്ധിക്കുകയും ചെയ്യുന്നു ന്യൂക്ലിയസിലേക്കുള്ള ഫോഴ്സ് ട്രാൻസ്മിഷൻ ദ്രുതഗതിയിലാണ് സംഭവിക്കുന്നത് ആയതിനാൽ വിവിധതരം ഘടകങ്ങളോട് കോശങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു സെൻസിങ് എന്ന പ്രക്രിയ എങ്ങനെ നടക്കുന്നു എന്നിവ നിർണ്ണയിക്കുന്നതിൽ മെക്കാനിക്കൽ സിഗ്നലുകൾക്ക് കടുത്ത സ്വാധീനം ചെലുത്താനാകും അങ്ങനെയെങ്കിൽ മേല്പറഞ്ഞ മേഖലയിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഘടകങ്ങളിൽ എന്തെങ്കിലും പാകപ്പിഴവ് സംഭവിക്കാൻ ഇടവന്നാൽ സജീവമായി പ്രവർത്തിക്കുന്ന സിഗ്നൽ സംവേദന ശൃംഖല നേരിടാൻ ഇടയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ എന്നത് തീർത്തും പ്രസക്തമായൊരു ചോദ്യമാണ് ഇനി മെക്കാനോ ട്രാൻസ്ഡ്ക്ഷൻ തടസ്സപെടുന്ന സാഹചര്യത്തിൽ ഉടലെടുക്കുന്ന മസ്ക്യൂലർ ഡയസ്ട്രോഫി എന്ന രോഗാവസ്ഥയെ കുറിച്ച് നമുക്കൊന്ന് വിശദമായി പഠിക്കാം അസ്ഥികൂടത്തിന്റെ പേശി കോശങ്ങളിൽ എഡ്ഹെഷന് ഉതകുന്ന ഇന്റെഗ്രിൻ എന്ന പ്രോട്ടീനിനെ പറ്റി നിങ്ങൾക്ക് ധാരണയുണ്ടല്ലോ ഈ കാണുന്നത് കോശത്തിന് ഉൾവശത്തായുള്ള മുകൾ ഭാഗമാണ് എന്നാൽ ഇതാകട്ടെ കോശത്തിനെ പുറംവശവും കോശങ്ങളെ അകത്ത് നിന്നും പുറത്തേക്ക് ബന്ധിപ്പിക്കുന്ന ഇന്റെഗ്രിനിന് പുറമെ കോശങ്ങളെ പുറത്ത് നിന്നും അകത്തേക്ക് ബന്ധിപ്പിക്കുന്ന ഡയ്സ്ട്രോഗ്ലൈകെൻ കോംപ്ലെക്സ് നമുക്കിവിടെ കാണാവുന്നതാണ് ഡയ്സ്ട്രോഗ്ലൈകെൻ കോംപ്ലെക്സിനകത്ത് ഡയ്സ്ട്രോഫിൻ എന്ന ഒരു പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് മനുഷ്യശരീരത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പ്രോട്ടീനായ ഡയ്സ്ട്രോഫിൻ ഡയ്സ്ട്രോഗ്ലൈകെൻ കോംപ്ലെക്സിനെ സൈറ്റോസ്കെലിറ്റനുമായി ബന്ധിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ട് ഈ കാണുന്നത് പേശിയിലെ ഒരു സാധാരണ കോശത്തിന്റെ ഘടനയാണ് മേല്പറഞ്ഞ സൈറ്റോസ്കെലിറ്റൻ സഞ്ചയത്തിൽ ഉൾപ്പെടുന്ന ഒന്നിലധികം ഘടകങ്ങളെ ബാധിക്കുന്ന വിവിധയിനം മസ്ക്യൂലർ ഡയസ്ട്രോഫികളുണ്ട് ഇതിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ലിമ്പ് ഗേർഡിൽ മസ്ക്യൂലർ ഡയസ്ട്രോഫി ഒന്നിലേറെ ഘടകങ്ങളുടെ അഭാവമുണ്ടാകുമ്പോഴാണ് മേല്പറഞ്ഞ രോഗാവസ്ഥ ഉടലെടുക്കുന്നത് SG എന്നത് സാർകോഗ്ലൈക്കൻ എന്നതിന്റെ ചുരുക്കെഴുത്താണ് മേല്പറഞ്ഞ രോഗാവസ്ഥയിൽ ഗാമ സാർകോഗ്ലൈക്കന് പകരം സാർകോഗ്ലൈക്കൻ എന്ന ഘടകം മാത്രമാണുള്ളത് ഡയ്സ്ട്രോഫിൻ മുഖേന സൈറ്റോസ്കെലിറ്റനുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ പ്രോട്ടീൻ ശൃംഖല തീർത്തും അപര്യാപ്തമാണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്ന രോഗാവസ്ഥയെന്നത് ഡൂഷെയ്ൻ മസ്ക്യൂലർ ഡയസ്ട്രോഫിയാണ് ഡയ്സ്ട്രോഫിൻ ജീനിന്റെ അഭാവം മൂലം ഡയ്സ്ട്രോഗ്ലൈകെൻ കോംപ്ലെക്സ് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല മേല്പറഞ്ഞ സാഹചര്യത്തിൽ ഇന്റെഗ്രിനുകളുടെ സഹായത്താൽ മാത്രമേ കോശത്തിൽ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളു mdx അഥവാ ഡൂഷെയ്ൻ മസ്ക്യൂലർ ഡയസ്ട്രോഫി വളരെയധികം ദുർഘടം പിടിച്ച രോഗാവസ്ഥയാണ് മേല്പറഞ്ഞ സാഹചര്യത്തിൽ ആരോഗ്യസ്ഥിതി വഷളാവുകയും 15 മുതൽ 20 വയസ്സ് പ്രായമാകുമ്പോഴേക്കും വ്യക്തി മരണമടയുകയും ചെയ്യുന്നു സൈറ്റോസ്കെലിറ്റനിലേക്കുള്ള ഇന്റെഗ്രിനിന്റെ കണക്ഷനുകൾ താരതമ്യം ചെയ്യുമ്പോൾ മറ്റ് ഇനങ്ങളിൽ നിന്നും തീർത്തും മിതമായ ഒരു രോഗാവസ്ഥയായിട്ടാണ് ഇത് പരിഗണിക്കപ്പെടുന്നത് എന്നാൽ ചിത്രത്തിൽ കാണുന്നത് പോലെ കോശങ്ങളുടെ പുറമെ നിന്നും ഉള്ളിലേക്ക് ബന്ധിപ്പിക്കുന്ന ഇന്റെഗ്രിൻ കണക്ഷനുകൾ mdx ന്റെ കാര്യത്തിൽ ധാരാളം ഉണ്ടാകാമെന്നാണ് ഇവിടെ അനുമാനിക്കപ്പെടുന്നത് മറ്റ് ഘടകങ്ങളുടെ അഭാവം പരിഹരിക്കാനായിരിക്കാം ഇവ കോശങ്ങളിൽ ധാരാളമായി കാണുന്നതിന്റെ ഉദ്ദേശം ആയതിനാൽ കോശങ്ങൾക്കകത്ത് തത്തുല്യവും എന്നാൽ പ്രബലവുമായ രണ്ട് ശൃംഖലകൾ നിലവിലുണ്ടെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ഒന്ന് ഡയ്സ്ട്രോഗ്ലൈകെൻ കോംപ്ലെക്സും മറ്റൊന്ന് ഫോക്കൽ എഡ്ഹെഷൻ കോംപ്ലെക്സുമാണ് തന്മാത്രകളെ കോശങ്ങളുടെ പുറമെ നിന്നും ഉള്ളിലേക്ക് സംപ്രേക്ഷണം ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഇവ രണ്ടും സംയുക്തമായാണ് ഏർപ്പെടുന്നത് കോശങ്ങളിൽ കാണപ്പെടുന്ന ഇന്റഗ്രിൻസ് ഓവർ എക്സ്പ്രെസ്സ്ഡ് ആകുമ്പോൾ ഉള്ള പരിണിത ഫലമെന്താണെന്ന് നമുക്ക് വിശദമായൊന്ന് ചർച്ച ചെയ്യാം മേല്പറഞ്ഞ രോഗാവസ്ഥകൾ ഉടലെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇന്റെഗ്രിൻസിന്റെ അളവിലും വർദ്ധനവുണ്ടാകുന്നു ഈ കാണുന്നത് mdx കോശങ്ങളുടെ ഒരു സെൽ കൾച്ചറാണ് മേല്പറഞ്ഞ കോശങ്ങളിൽ ഗാമ സാർകോഗ്ലൈക്കന്റെ കുറവുണ്ടെന്നതാണ് ഇവയുടെ ന്യൂനത ഇവയെ ഇൻ വിട്രോയായി കൾച്ചർ ചെയ്യുമ്പോൾ കാണുന്ന ഒരു കൌതുകകരമായ വസ്തുത എന്തെന്നാൽ ഇവയുടെ ആകൃതി അപോപ്ടോസിസിന് പിന്തുണയേകുന്ന തരത്തിലുള്ളവയാണ് എന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ കോശങ്ങൾ പ്രതലത്തിനുമേൽ ഗണ്യമായ തോതിൽ കോൺട്രാക്റ്റയിൽ ഫോഴ്സുകൾ ചെലുത്തുണ്ട് മേല്പറഞ്ഞ ഫോഴ്സിന്റെ നിരക്ക് അളക്കുന്നതിനായി നമുക്ക് ഈ കാണുന്ന എസ്സേ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇവിടെ നാം കോശത്തിനെ ഒരു ടെൻസ്ഡ് സ്ട്രിങ്ങായിട്ടാണ് കണക്കാക്കുന്നത് ഇതിനെ നമ്മൾ ഈ കാണുന്ന പ്രതലത്തിൽ വിവിധ ഏണുകളിൽ നിന്നും ബന്ധിച്ചിരിക്കുകയാണ് മേല്പറഞ്ഞ ബന്ധനം ഏറെക്കുറെ ഫോക്കൽ എഡ്ഹെഷൻസിനോട് സമാനമാണ് സ്ട്രിങിലെ ടെൻഷന്റെ നിരക്കിൽ വർദ്ധനവുണ്ടാകുമ്പോൾ സമതുലിതമായ രീതിയിൽ പ്രതലവുമായി കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന എഡ്ഹെഷനുകളും സുദൃഢമായിരിക്കണം എന്നിരുന്നാൽ മാത്രമേ മേല്പറഞ്ഞ സംവിധാനം സുസ്ഥിരമാകുകയുള്ളൂ ഈ കാണുന്ന പ്രതലമാണ് യഥാർത്ഥത്തിൽ ടെൻസൈൽ ഫോഴ്സിനെ നിലനിർത്തുന്നത് ഇതിന്റെ തോത് അളന്ന് തിട്ടപ്പെടുത്തുന്നതിനായി നമുക്ക് ഈ കാണുന്ന സ്ട്രിങിനെ ഒരു പ്രത്യേക റിയേജന്റ് ഉപയോഗിച്ച് വേർപെടുത്താൻ ശ്രമിക്കാം ഇത് ടെൻസ്ഡ് ആണെന്നും നേരെ മറിച്ച് ഇത് റിലാക്സ്ഡ് ആണെന്നും കരുതുക അങ്ങനെയെങ്കിൽ ഈ കാണുന്ന സ്ട്രിങിന്റെ നീളത്തിനെയാണ് നാം ഇവിടെ യഥാർത്ഥത്തിൽ ട്രാക്ക് ചെയ്യുന്നത് ഇനി ഒരു പിപ്പറ്റിന്റെ സഹായത്താൽ ഈ കാണുന്ന കോശങ്ങളെ നിങ്ങൾ അടർത്തുകയാണെന് കരുതുക അക്ഷരാർത്ഥത്തിൽ നാം അവയെ സുദൃഢമായി ബന്ധിച്ചിരിക്കുന്ന എഡ്ഹെഷനുകളെയാണ് യഥാർത്ഥത്തിൽ അറുത്തുമാറ്റുന്നത് മേല്പറഞ്ഞ പ്രവൃത്തി മൂലം പ്രാദേശികതലത്തിൽ ഏതാനും ചില ഫോഴ്സുകളുടെ ഏറ്റകുറിച്ചിലുകൾ പ്രകടമാകുന്നു ആയതിനാൽ സിസ്റ്റത്തിന് സമതുലിതമായ അവസ്ഥയിലേക്ക് തിരികെയെത്താൻ അല്പം വിശ്രമം ആവശ്യമാണ് നമുക്ക് ലഭ്യമായ സ്ട്രിങിന്റെ ദൈർഘ്യത്തിനെ സമയത്തിന്റെ ഫങ്ഷനായി രേഖപെടുത്തി അതിന്റെ ആരംഭത്തിലെ നീളവുമായി താദാത്മ്യം ചെയ്താൽ നമുക്ക് L ലഭ്യമാകുന്നു L ന്റെ മൂല്യം ഇനീഷ്യൽ തുകയായ ഒന്നിൽ നിന്നും തുടങ്ങി ഒടുവിൽ ക്രമേണ താഴ്ന്ന നിരക്കിലേക്ക് എത്തുന്നു അല്പസമയത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ മേല്പറഞ്ഞ ദൂരത്തിൽ ഗണ്യമായ തോതിലുള്ള വ്യതിചലനങ്ങളൊന്നും പ്രകടമാകുന്നില്ല എന്ന് നമുക്ക് വ്യക്തമാകും മേല്പറഞ്ഞ റിലാക്സേഷൻ എന്നത് യഥാർത്ഥത്തിൽ സിസ്റ്റത്തിൽ അന്തർനിർമ്മിതമായ ടെൻഷൻ മൂലം ഉടലെടുത്തത് തന്നെയാണെന്നതാണ് വാസ്തവം അതായത് സിസ്റ്റത്തിൽ ഗണ്യമായ നിരക്കിൽ ടെൻഷൻ അനുഭവപ്പെട്ടാൽ അതിന് പരിഹാരം കാണാൻ സിസ്റ്റം ദീർഘനേരത്തേക്ക് വിരാമത്തിൽ തുടരേണ്ടതുണ്ട് എന്ന് സാരം മേല്പറഞ്ഞ വ്യസ്ഥിതിയെ നമുക്ക് കോൺട്രാക്റ്റയിലിറ്റി എന്ന് അഭിസംബോധന ചെയ്യാവുന്നതാണ് പേശികളിലെ വൈൽഡ് ടൈപ്പ് കോശങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായും mdx കോശങ്ങൾ ഹൈപ്പർ ടെൻസീവ് അല്ലെങ്കിൽ കോൺട്രാക്റ്റയിൽ ആണെന്ന് നമുക്ക് പറയാവുന്നതാണ് എന്നാൽ ഗാമ സാർകോഗ്ലൈക്കന്റെ അഭാവമുള്ള കോശങ്ങളാകട്ടെ ഇവയെക്കാൾ ക്രമാധീതമായ തോതിൽ ഹൈപ്പർ ടെൻസീവാണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നു അഥവാ mdx കോശങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ gsg കോശങ്ങളിലെ കോൺട്രാക്റ്റയിലിറ്റിയുടെ നിരക്കിൽ ഗണ്യമായ വർദ്ധനവ് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് ചുരുക്കം മറ്റൊരു കാര്യമെന്തെന്നാൽ C57 കോശങ്ങളെക്കാൾ കൂടുതലായി ഇവ രണ്ടിലും കോൺട്രാക്റ്റയിലിറ്റി പ്രകടമാണ് എന്നതാണ് കോശങ്ങളുടെ സർവൈവൽ അഥവാ ഉപജീവനമാണ് പ്രധാന ഉദ്ദേശ്യം എന്നത് മേൽ സൂചിപ്പിച്ച പരീക്ഷണത്തിലൂടെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും അതായത് mdx കോശങ്ങളിൽ മാരകമായ രോഗാവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇവയുടെ ഉപജീവനത്തിനെ അത് കാര്യമായി ബാധിക്കുന്നില്ല എന്നർത്ഥം എന്നാൽ ഒടുവിൽ രോഗിയുടെ മരണം സംഭവിക്കുന്നത് ഒരു പക്ഷെ അവയവങ്ങളുടെ തകരാറ് മൂലമായിരിക്കും തങ്ങളിൽ പ്രകടമാകുന്ന കോൺട്രാക്റ്റയിലിറ്റിയെ പ്രതലവുമായി ബന്ധിപ്പിക്കുന്ന എഡ്ഹെഷനുകൾ ഉപയോഗപ്പെടുത്തിയാണ് കോശങ്ങൾ പ്രതിരോധിക്കുന്നത് ഇതിന് വിപരീതമായി കോൺട്രാക്റ്റയിലിറ്റിയുടെ നിരക്ക് ക്രമാധീതമായി കൂടുതലാണെന്ന് കരുതുക ഈ സാഹചര്യത്തിൽ കോശം പ്രതലത്തിനെ പൂൾ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാൽ എല്ലാ ഫോഴ്സുകളെയും ദുർബലമാക്കാൻ പ്രതലത്തിന് സാധ്യമായെന്ന് വരില്ല അത്തരമൊരു സന്ദർഭത്തിൽ കോശം ഉരുണ്ട ആകൃതി കൈവരിക്കുന്നു ഈ കാണുന്ന ഫീനോടൈപ്പിൽ സൂചിപ്പിക്കുന്നത് പോലെ അപോപ്ടോസിസിന്റെ കാര്യത്തിൽ മേല്പറഞ്ഞ ഫോഴ്സുകളുടെ ഒരു അസമത്വം പ്രകടമാകുന്നുണ്ട് കോൺട്രാക്റ്റയിലിറ്റിയുടെ അതിരൂക്ഷമായ പ്രഭാവവും എന്നാൽ മേല്പറഞ്ഞ നഷ്ടം നികത്താൻ ഉതകുന്ന ബലിഷ്ഠമായ എഡ്ഹെഷനുകളുടെ അഭാവവും ഇവിടെ സുവ്യക്തമാണ് ഒരു അവലോകനം നടത്തുകയാണെങ്കിൽ മെക്കാനിക്കൽ ഫോഴ്സുകളോടുള്ള കോശങ്ങളുടെ പ്രതികരണങ്ങൾ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നവയാണെന്നും വിവിധതരം രോഗാവസ്ഥകളിൽ അവയ്ക്കുള്ള പങ്കിനെ പറ്റിയും നാം ഇവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു ആയതിനാൽ മെക്കാനോ ട്രാൻസ്ഡ്ക്ഷൻ എന്ന പ്രക്രിയ സംഭവ്യമാകണമെങ്കിൽ ഒരു സെൻസിങ് മോഡ്യൂളും ഒരു ട്രാൻസ്മിഷൻ മോഡ്യൂളും അനിവാര്യമാണ് ഈ രണ്ട് മൊഡ്യൂളുകളിൽ ഏതെങ്കിലും ഒന്നിൽ തടസ്സം സൃഷ്ടിക്കപ്പെട്ടാൽ തന്നെ രോഗാവസ്ഥകൾ ഉടലെടുക്കാനുള്ള സാധ്യത സുനിശ്ചിതമാണ് കോശങ്ങളിലെ മെക്കാനോബയോളജിക്കൽ പ്രതികരണങ്ങളെ ഏകോപിപ്പിക്കുന്നത് പ്ലാസ്മ മെംബ്രേയ്നിൽ ഉടലെടുക്കുന്ന എഡ്ഹെഷനുകളും അവയിലെ സൈറ്റോസ്കെലിറ്റനുമാണ് മേല്പറഞ്ഞ സൈറ്റോസ്കെലിറ്റനും ഫോക്കൽ എഡ്ഹെഷനുകളും ചലനാത്മകമായ ഘടകങ്ങളായതിനാൽ തന്നെ അവയ്ക്ക് കോശങ്ങളുടെ ചലനം പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കും പക്ഷെ വ്യത്യസ്ത ഘടകങ്ങളുടെ പ്രതികരണങ്ങൾ സമയക്രമത്തിൽ വിഭിന്നമായിരിക്കും എന്നതും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അങ്ങനെ മെക്കാനോ ബയോളജി എന്ന വിഷയത്തിന്റെ വിശാലമായ അവതാരികയ്ക്ക് ഇവിടെ തിരശീല വീഴുകയാണ് ഇനി നമുക്ക് എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് സൈറ്റോസ്കെലിറ്റൻ ഫോക്കൽ എഡ്ഹെഷൻസ് മുതലായ കോശത്തിന്റെ ഘടനാപരമായ സവിശേഷതകളെ കുറിച്ചുള്ള വിശദമായ ചർച്ചകളിലേക്ക് കടക്കാം പ്രസ്തുത ലെക്ച്ചറിന്റെ തുടക്കത്തിൽ ഞാൻ കോശങ്ങളെ ഒരു ടെന്റുമായി താരതമ്യപ്പെടുത്തി ഫേർമ് ഗ്രൌണ്ട് എന്നൊരു പ്രയോഗം നടത്തിയിരുന്നു എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിനെയാണ് ഞാനിവിടെ ഫേർമ് ഗ്രൌണ്ട് എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ഗാമ സാർകോഗ്ലൈക്കന്റെ അഭാവമുള്ള കോശങ്ങളിൽ പഠനം നടത്തിയത് പോലെ നമുക്ക് മറ്റൊരു സന്ദർഭം കൂടി കണക്കിലെടുക്കാം അതായത് ഈ കാണുന്ന പ്രതലത്തിരിക്കുന്ന കോശം മെട്രിക്സിന് മേൽ ഗണ്യമായ നിരക്കിൽ വിവിധതരം ഫോഴ്സുകൾ ചെലുത്തുന്നുണ്ടെന്ന് ധരിക്കുക മേല്പറഞ്ഞ ഫോഴ്സുകളെയെല്ലാം പ്രതിരോധിക്കാനുള്ള കെൽപ് പ്രതലത്തിനില്ല എന്നും കരുതുക അങ്ങനെയെങ്കിൽ ക്രമേണ കോശം മെട്രിക്സിൽ നിന്ന് വേർപെടുകയോ അല്ലെങ്കിൽ നിലംപതിക്കുകയോ ചെയ്യുന്നു ചുരുക്കിപ്പറഞ്ഞാൽ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കെമിക്കൽ പ്രോപ്പർടീസിന് മാത്രമല്ല ഫിസിക്കൽ പ്രോപ്പർടീസിനും വളരെയധികം പ്രാധാന്യമുണ്ട് പ്ലാസ്മ മെംബ്രേയ്നിന്റെ കാഴ്ച്ചവെട്ടത്ത് നിന്നും തെന്നിമാറി വിഹരിക്കുന്ന ഒരു സംഘടിത ശൃംഖലയാണ് മേല്പറഞ്ഞ ECM കോശങ്ങളുടെ അകത്തളം യഥാർത്ഥത്തിൽ ഒരു 3 D ഘടനയിലാണുള്ളത് എന്നാൽ ഇവയ്ക്കുള്ളിലെ എൻഡോതീലിയം പോലുള്ള പ്രതലങ്ങൾ മേല്പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി പരന്ന ആകൃതിയാണ് കൈക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിന്റെ ധർമ്മമെന്താണ് കോശങ്ങൾക്ക് നിയതമായ ആകൃതി പ്രധാനം ചെയ്യുകയും അവയുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഘടകങ്ങളെ ക്രമീകരിക്കുകയും മറ്റ് രാസപ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്യലാണ് ഇവയുടെ പരമോന്നതമായ ഉദ്ദേശം മേല്പറഞ്ഞ മെട്രിക്സിനകത്ത് കോശങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഘടകങ്ങൾ ക്രോസ് ലിങ്ക് ചെയ്യപ്പെട്ട രീതിയിൽ കാണാവുന്നതാണ് മറ്റ് കോശങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന സിഗ്നലുകൾ ആധാരമാക്കിയാണ് ഇവയുടെ പ്രകാശനം സംഭവിക്കുന്നത് കോശങ്ങളിൽ നിന്നും പുറത്തുകടക്കുന്നതിലൂടെ ഇവ പ്രയോഗികക്ഷമത ഉള്ള തന്മാത്രകളായി രൂപാന്തരപ്പെടുന്നു കോശങ്ങളുടെ സ്വഭാവസവിശേഷതകൾ നിർണ്ണയിക്കാൻ ഏതാനും ചില ഘടകങ്ങളെയും ECM എൻകോഡ് ചെയ്യുന്നുണ്ട് മേല്പറഞ്ഞ ECM എങ്ങനെയാണ് പ്രവർത്തനത്തിലേർപ്പെടുന്നത് കോശങ്ങൾ എപ്രകാരമാണ് അവയെ സ്വമേധയ ഉത്പാദിപ്പിക്കുന്നത് എന്നതെല്ലാം ഇവിടെ ഉടലെടുക്കുന്ന സംശയങ്ങളാണ് ഇവ ദൂരീകരിക്കുന്നതിനായി നമുക്ക് ഫൈബ്രോബ്ലാസ്റ് കോശങ്ങളുടെ ഉദാഹരണം തന്നെയെടുക്കാം അവയ്ക്ക് വലിയ തോതിൽ കൊളാജെൻ എന്ന കണക്റ്റീവ് ടിഷ്യു സ്രവിക്കാൻ സാധിക്കും ഈ കാണുന്നത് വിവിധയിനം കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന മെട്രിക്സുകളുടെ രണ്ട് മാതൃകളാണ് ഇത് കാർട്ടിലേജ് കോശങ്ങളാൽ നിർമ്മിതമായ മെട്രിക്സാണ് കോശങ്ങളെ തമ്മിൽ കോർത്തിണക്കി ഒരു പായ വിരിച്ച പോലുള്ള പ്രതീതി നൽകുന്നവയാണ് മേല്പറഞ്ഞ മെട്രിക്സുകൾ എന്നാൽ ഈ കാണുന്ന മെട്രിക്സാകട്ടെ കോൺഡ്രോസൈറ്റ് എന്ന കോശങ്ങളാൽ നിർമ്മിതമായവയാണ് ഇവയ്ക്ക് ചുറ്റും ചുവന്ന രക്താണുക്കളുടെ ഒരു പടലം തന്നെ നമുക്ക് ദൃശ്യമാകുന്നുണ്ട് അതിനർത്ഥം മേല്പറഞ്ഞ മെട്രിക്സ് വളരെയധികം സാന്ദ്രവും ഇടതൂർന്ന് നിബിഡമായ ഘടനയുള്ളതുമാണെന്ന് ചുരുക്കം അവയിലെ സുഷിരങ്ങൾ തീർത്തും ചെറുതായതിനാൽ തന്നെ യാതൊരു തരത്തിലുള്ള കോശങ്ങൾക്കും അതിനിടയിൽ പ്രവേശനം ലഭ്യമല്ല എന്നതാണ് വസ്തുത മേല്പറഞ്ഞ തരത്തിലുള്ള മെട്രിക്സുകൾ കോശങ്ങളുടെ മൈഗ്രേഷൻ ഒരു പരിധി വരെ പ്രതിരോധിക്കുന്നുണ്ട് ഈ കാണുന്ന ചിത്രത്തിലുള്ള എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിന്റെ ഫൈബറുകളുടെ രൂപഘടനയും വിന്യാസവും നമുക്കൊന്ന് സസൂക്ഷ്മം വീക്ഷിക്കാം ഏകീകൃതമായ ശൈലിയിലാണ് ഇവയെ അണിനിരത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാവുന്നതാണ് എന്നിരുന്നാലും നിയതമായ ദിശകളിൽ നിന്നും വ്യത്യസ്തമായി ഫൈബറുകളെ വിന്യസിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല നമുക്ക് ഈ കാണുന്ന സാഹചര്യമൊന്ന് കണക്കിലെടുക്കാം നിയതമായ രീതിയിൽ വിന്യസിക്കാത്ത ഒരു മെട്രിക്സിനുമേൽ നിലയുറപ്പിച്ച ഒരു കോശത്തിന് മെട്രിക്സിൽ നിന്നും കാര്യമായ രീതിയിലുള്ള ദിശാസൂചനകളൊന്നും ലഭ്യമാകുന്നില്ല ആയതിനാൽ അവയ്ക്ക് ഏത് ദിശയിൽ വേണമെങ്കിലും അനായാസം സഞ്ചരിക്കാനാകും ഞാനിവിടെ വരച്ചിരിക്കുന്ന കോശത്തിന്റെ കാര്യം തന്നെയെടുക്കാം ഇതിന്റെ ഈ കാണുന്ന കോണും മുൻവശത്തുള്ള അരികും കണക്കിലെടുത്താൽ അവയ്ക്ക് ഈ കാണുന്ന മൂന്ന് ദിശകളിൽ ഏതെങ്കിലുമൊന്ന് സഞ്ചാരപദത്തിനായി തിരഞ്ഞെടുക്കാവുന്നതാണ് അതായത് ഗണ്യമായ തോതിലുള്ള യാതൊരു ദിശാസൂചനകളും കോശങ്ങളിൽ പ്രകടമല്ല എന്നതാണ് വാസ്തവം ഒരു ടിഷ്യു കൾച്ചർ പ്ലേറ്റിലും സമാനമായ പ്രതിഭാസം തന്നെയാണ് നമുക്ക് ദൃശ്യമാകുന്നത് കോശങ്ങൾ സ്രവിക്കുന്ന മെട്രിക്സ് ചിലപ്പോൾ പ്രതലത്തിൽ അടിഞ്ഞു കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെയാകുമ്പോൾ കോശങ്ങളിൽ അനുഭവപ്പെടുന്ന പോളറൈസേഷൻന്റെ തോത് അനുസരിച്ച് അവയ്ക്ക് ഏതു ദിശയിലും സുഗമമായി സഞ്ചരിക്കാനുള്ള പ്രവണതയുണ്ടാകും എന്നത് തീർത്തും സ്വാഭാവികമാണ് മേല്പറഞ്ഞ മെട്രിക്സ് നിയതമായ രീതിയിൽ അനുവർത്തിക്കുന്ന ഒന്നാണെന്ന് കരുതുക അങ്ങനെയാകുമ്പോൾ അവയ്ക്ക് മുകളിൽ നിലയുറപ്പിക്കുന്ന കോശങ്ങൾ മെട്രിക്സിലെ ഫൈബറുകൾ അണിനിരത്തപ്പെട്ട ദിശയിൽ തന്നെ സഞ്ചരിക്കാനുള്ള പ്രവണത പ്രദർശിപ്പിക്കും അപ്പോൾ ഇവിടെ രണ്ട് ഗണത്തിൽ പെടുന്ന മൈഗ്രേഷനുകളാണ് സംഭവിക്കുന്നത് ഒന്ന് പെർസിസ്റ്റന്റ് മൈഗ്രേഷനും മറ്റൊന്ന് റാൻഡം മൈഗ്രേഷനുമാണ് ഞാൻ ഇവിടെ രണ്ട് ട്രജക്ടറികൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നു റാൻഡംമിലി വിഹരിക്കുന്ന കോശങ്ങളുടെ സഞ്ചാരപാതയാണിത് ഇവിടെ ഈ കോശം ഇങ്ങോട്ടാണ് ചലിക്കുന്നതെങ്കിൽ ഇതിന്റെ സഞ്ചാരപഥം ഈ കാണുന്ന ദിശയിലാണ് ഈ കാണുന്ന രീതിയിലുള്ള വ്യക്തിഗത ട്രജക്ടറികൾ ആണെങ്കിൽ കോശങ്ങളുടെ സഞ്ചാരപഥം ഏതാണ്ട് സ്ഥിരതയുള്ളതാണെന്ന് നമുക്ക് ഉറപ്പിക്കാം ഇത്തരം സാഹചര്യങ്ങളിൽ ഉള്ള കോശങ്ങൾ സാധാരണഗതിയിൽ സ്വാഭാവികമായും പെർസിസ്റ്റന്റ് മൈഗ്രേഷൻ കാണിക്കുന്നവയായിരിരിക്കും ഒരു കോശത്തിന്റെ മൈഗ്രേഷൻ പ്രൊഫൈൽ റാൻഡമാണോ അതോ പെർസിസ്റ്റന്റാണോ എന്ന് നിർണ്ണയിക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ് ഈ കാണുന്ന കോശത്തിന് ഒന്നിലധികം സഞ്ചാരപഥങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നിരുന്നാലും തത്ക്കാലം ഈ കാണുന്ന ട്രജക്ടറി നമുക്ക് പഠനത്തിനായി എടുക്കാം ഇതിനെ നമുക്ക് OA എന്ന് വിളിക്കാം ഈ കോശം ഇതിന്റെ ആരംഭ ബിന്ദുവിൽ നിന്നും ഒടുക്കം വരെ നിശ്ചിത കാലയളവിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത് ഇവ രണ്ടും ഒരേ കാലയളവിൽ എടുത്ത രണ്ട് വ്യത്യസ്ത കോശങ്ങളുടെ സഞ്ചാരപഥങ്ങളാണെന്ന് കരുതുക ഉദാഹരണത്തിന് പന്ത്രണ്ട് മണിക്കൂർ നിരീക്ഷിച്ച ശേഷം നമുക്ക് ലഭ്യമായ വിവരങ്ങളാണ് ഇതെന്ന് വിചാരിക്കുക മേല്പറഞ്ഞ കോശങ്ങൾ ഈ കാലയളവിൽ സഞ്ചരിച്ച നിശ്ചിത ദൂരത്തിന്റെ ആകെത്തുക അളന്ന് തിട്ടപ്പെടുത്തുക എന്നതാണ് ഒരു മാർഗം അതായത് മധ്യഭാഗത്തുള്ള കേന്ദ്രബിന്ദുവിൽ നിന്നും കോശം എത്ര ദൂരം സഞ്ചരിച്ചു എന്ന കണക്കെടുപ്പ് നടത്തുക ഈ കാണുന്ന സാഹചര്യവുമായി താദാത്മ്യം പുലർത്തുമ്പോൾ ഇവിടെ കോശം മറ്റേതിനെക്കാൾ അല്പം അധികദൂരം സഞ്ചരിക്കുമെന്ന അനുമാനത്തിൽ നാം എത്തിയേക്കാം എന്നാൽ മേല്പറഞ്ഞ അനുമാനം നമുക്ക് തീർത്തും ഉറപ്പിക്കാൻ സാധിക്കുകയില്ല ഉദാഹരണത്തിന് ഈ കാണുന്ന ചുവന്ന സഞ്ചാരപഥം ഒന്ന് നോക്കൂ ഇത് ഈ കാണുന്നതിനേക്കാൾ മുന്തിയ ദൂരം സഞ്ചരിച്ചതായി പ്രകടമാകുന്നില്ലേ ധാരാളം വൈജാത്യം ഇവിടെ വ്യക്തമാണ് ആയതിനാൽ ഇത്തരത്തിലുള്ള പെർസിസ്റ്റന്റ് മൈഗ്രേഷനുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവയെ അളന്ന് തിട്ടപ്പെടുത്തുന്നതിനായി അല്പം കൂടി മാനകീകരിക്കപ്പെട്ട ഒരു രീതി പിന്തുടരേണ്ടതായിട്ടുണ്ട് എന്നതാണ് വസ്തുത പ്രസ്തുത ലെക്ച്ചർ ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ് വരും ലെക്ച്ചറുകളിൽ പെർസിസ്റ്റന്റ് മൈഗ്രേഷന്റെയും റാൻഡം മൈഗ്രേഷന്റെയും മൂല്യംനിർണ്ണയം നടത്തുന്നതിനായുള്ള മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം